എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 ലെ ലെക്ചർ നമ്പർ 24ലേക്ക് സ്വാഗതം ഇതിൽ ഇoപ്രൊപ്പർ ഇന്റഗ്രലുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതിനാൽ പ്രത്യേകിച്ചും ടൈപ്പ് 2 ഇoപ്രൊപ്പർ ഇന്റഗ്രലുകളുടെ കൺവെർജെൻസിനെ കുറിച്ച് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും അവസാന ലെക്ചറിൽ എന്ന ടെസ്റ്റ് ഇന്റഗ്രൽ ഞങ്ങൾ കണ്ടു ഇത് ടൈപ്പ് 2 ഇoപ്രൊപ്പർ ഇന്റഗ്രലാണ് കാരണം x aലേക്ക് പോകുമ്പോൾ ഈ ഇന്റഗ്രൽ അൺബൌണ്ടഡ്ഡാണ് അതിനാൽ ഈ ടെസ്റ്റ് ഇന്റഗ്രൽ മറ്റ് ഇന്റഗ്രലുകളുടെ കൺവെർജെൻസിനെ തെളിയിക്കാൻ ഉപയോഗിക്കും P 1 കർശനമായി 1 ൽ കുറവായിരിക്കുമ്പോൾ ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു P≥1 ആണെങ്കിൽ ഈ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു അതിനാൽ ആരംഭിക്കുന്നതിന് ഈ ടൈപ്പ് 2 ഇന്റഗ്രലുകൾ ഇoപ്രൊപ്പർ ഇന്റഗ്രൽ ഉണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാo കൂടാതെ ഈ പ്ലസ് നൊട്ടേഷൻ ഞങ്ങൾ ഉപയോഗിക്കും x aലേക്ക് പോകുമ്പോൾ ഈ f അൺബൌണ്ടഡ്ഡായി മാറുന്നു അതിനാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ നൊട്ടേഷൻ ഉദാഹരണത്തിന് x bലേക്ക് പോകുമ്പോൾ f അൺബൌണ്ടഡ്ഡായി മാറുന്നു അതിനാൽ നമുക്ക് ഈ ഇന്റഗ്രൽ ഉള്ളപ്പോൾ x b ലേക്ക് പോകുമ്പോൾ f അൺബൌണ്ടഡ്ഡായി മാറുന്നു അത്തരം സന്ദർഭങ്ങളിൽ ഈ പകരക്കാരന് ഈ തരത്തിലുള്ള ഇന്റഗ്രലുമായി സാമ്യമുള്ള ഈ ഇന്റഗ്രലിനെ ഞങ്ങൾ ഡി ലിഗാൻഡ് ചെയ്യും അതിനാൽ നിങ്ങൾ x b t എന്നതിന് പകരമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സന്ദർഭത്തിൽ മൈനസ് ചിഹ്നം ഉപയോഗിച്ച് ഈ ഇന്റഗ്രൽ ആയി മാറും X a ആയിരിക്കുമ്പോൾ ഇത് t b a ആയിത്തീരും ആയിരിക്കുമ്പോൾ ഇത് 0 ആയി മാറും അതിനാൽ ലിമിറ്റ് മാറ്റുമ്പോൾ കിട്ടുന്നു x 0ലേക്ക് പോകുമ്പോൾ f x അൺബൌണ്ടഡ്ഡാകുന്നു ഇത് വീണ്ടും പരിഗണിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ സ്റ്റാൻഡേർഡ് ഇന്റഗ്രലിനെ ഞങ്ങൾ പരിഗണിക്കും ഇത് വീണ്ടും ഈ സ്വഭാവത്തിലുള്ളതാണ് വാദം താഴ്ന്ന ലിമിറ്റിലേക്ക് പോകുമ്പോൾ f ഇന്റെഗ്രാന്റ് ബൌണ്ടഡ്ഡായിരിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ t 0 ലേക്ക് അടുക്കുമ്പോൾ ഇത് അൺബൌണ്ടഡ്ഡായി മാറുന്നു അതിനാൽ x വലതുഭാഗത്ത് നിന്ന് a ലേക്ക് പോകുമ്പോൾ മുകളിൽ പറഞ്ഞ ഇന്റഗ്രലിലുള്ള അതേ സാഹചര്യം ഈ f അൺബൌണ്ടഡ്ഡാകുന്നു അതിനാൽ ഇപ്പോൾ അടുത്തതിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ ടൈപ്പ് 1 നായുള്ള മുൻ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്തതിന് സമാനമായ താരതമ്യ പരിശോധന ഞങ്ങൾക്ക് ഉണ്ട് ഈ സാഹചര്യത്തിൽ ax≤b തമ്മിലുള്ള ഫംഗ്ഷന്റെ മൂല്യങ്ങൾക്ക് ഈ അസമത്വം ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു അതിനാൽf നെഗറ്റീവ് അല്ലാത്ത മൂല്യങ്ങൾ എടുക്കുന്നു കൂടാതെ g വലിയ മൂല്യങ്ങൾ എടുക്കുന്നു തുടർന്ന് f 0≤f≤g അങ്ങനെയാണെങ്കിൽ ഈ g ഇവിടെ വലിയതാണെങ്കിൽ g വലിയ മൂല്യങ്ങൾ എടുക്കുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ ഇത് കൺവെർജ് ചെയ്താൽ സ്വാഭാവികമായും ഈ ഇന്റെഗ്രാന്റ് താഴ്ന്ന മൂല്യങ്ങൾ എടുക്കുന്നിടത്ത് കൺവെർജ് ചെയ്യുo രണ്ടാമത്തെ ടേം ഈ ബന്ധത്തിൽ നിന്ന് നമുക്ക് നിഗമനം ചെയ്യാം ഈ ഇന്റഗ്രൽ ചെറുതാണെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നുവെന്ന് അതിനാൽ ഡൈവേർജ് ചെയ്യുന്നു അതിനാൽ ഈ f g നേക്കാൾ കുറഞ്ഞ മൂല്യങ്ങൾ എടുക്കുന്നതിനാൽ ഈ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ ഇന്റഗ്രൽ മൂല്യം ഈ ഇന്റഗ്രലിനേക്കാൾ വലുതാണെന്ന് കരുതുക അതിനാൽ തീർച്ചയായും ഇതും ഡൈവേർജ് ചെയ്യുo അതിനാൽ ഇത് ഒരു ലളിതമായ താരതമ്യ പരിശോധനയാണ് പക്ഷേ അത്തരം ഇoപ്രൊപ്പർ ഇന്റഗ്രലുകളുടെ സ്വഭാവം നിർണ്ണയിക്കാൻ വളരെ ഉപയോഗപ്രദമാണ് ഇവിടെ മറ്റൊരു ടെസ്റ്റ് ഉണ്ട് അതിനെ ഞങ്ങൾ താരതമ്യ ടെസ്റ്റ് 2 എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഇതിനെ ലിമിറ്റ് ടെസ്റ്റ് എന്നും വിളിക്കുന്നു ഈ സാഹചര്യത്തിൽ f നോൺ നെഗറ്റീവ് മൂല്യങ്ങൾ എടുക്കുന്നുവെന്നും g വലിയ മൂല്യങ്ങൾ എടുക്കുന്നുവെന്നും f 0≤f≤g കിട്ടുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കണക്കാക്കുന്നു g നമ്മൾ കണ്ടെത്തേണ്ടത് നമുക്ക് ഇവിടെ ഈ നിഗമനം ലഭിക്കുന്നു അതിനാൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ മറ്റൊരു ഫംഗ്ഷൻ എടുക്കുന്നു ഉദാഹരണങ്ങൾ ചർച്ചചെയ്യുമ്പോൾ ഇത് വ്യക്തമാകും അതിനാൽ ഈ സാഹചര്യത്തിൽ മറ്റേതൊരു വഴിക്കും നൽകിയ f നായി ഞങ്ങൾ കുറച്ച് g തിരഞ്ഞെടുക്കുകയും ഈ ലിമിറ്റ് കണക്കാക്കുകയും ചെയ്യും ലിമിറ്റ് എന്ന് കരുതുക തുടർന്ന് k ന്റെ മൂല്യത്തെ അടിസ്ഥാനമാക്കി നമുക്ക് നൽകിയ സ്വഭാവത്തിന് ഇന്റഗ്രലിന്റെ സ്വഭാവം തീരുമാനിക്കാം ഉദാഹരണത്തിന് പൂജ്യമല്ലാത്ത സംഖ്യ നിങ്ങൾക്ക് ലിമിറ്റായി ലഭിക്കുകയാണെങ്കിൽ ഇവിടെ k ≠ 0 ആയിരിക്കും അതിനാൽ ഈ എന്നതിന്റെ അർത്ഥമുള്ള രണ്ട് ഇന്റഗ്രലുകളും ഈ ഉം സമാനമായി പ്രവർത്തിക്കും X → a ആയിരിക്കുമ്പോൾ ഈ അനുപാതം പൂജ്യമല്ലാത്ത സംഖ്യയാണെന്നതിന്റെ കാരണം വ്യക്തമാണ് അവ x → a എന്നതിന് സമാനമാണ് തുടർന്ന് ഇന്റഗ്രൽ രണ്ടും ഡൈവേർജ് ചെയ്യുo അല്ലെങ്കിൽ രണ്ടും ഈ കേസിൽ കൺവെർജ് ചെയ്യുo ഇത് വളരെ ഉപയോഗപ്രദമാണ് മിക്ക ഉദാഹരണങ്ങളും കൃത്യമായി ഈ അനുപാതത്തിന്റെ ലിമിറ്റ് ഞങ്ങൾക്ക് ലഭിച്ച k എന്ന നിഗമനത്തിലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് ഒന്നുകിൽ ഈ സ്ട്രെസ് ഇന്റഗ്രലിനെ ആശ്രയിച്ച് അത് കൺവെർജ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ കൂടാതെ മറ്റ് ഇന്റഗ്രലിന്റെ സ്വഭാവം നമുക്ക് നിഗമനം ചെയ്യാം നമുക്ക് ഉദാഹരണമായി ഈ k 0 ലഭിക്കുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ g വളരെ വേഗത്തിൽ വളരുകയും ഒരുപക്ഷേ ഈ f നേക്കാൾ ലേക്ക് പോകുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾക്ക് 0 ലഭിച്ചു അതിനാൽ x → a ആകുമ്പോൽ gക്ക് വലിയ മൂല്യങ്ങളുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇന്റഗ്രൽ g കൺവെർജ് ചെയ്താൽ ഈ ലിമിറ്റ് കാരണം ഇന്റഗ്രൽ f കൺവെർജ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും ഈ g അതിവേഗം വളരും അതുകൊണ്ടാണ് ഇവിടെ ഇത് 0 ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ കൺവെർജ് ചെയ്താൽ ഉം കൺവെർജ് ചെയ്യുo അതിനാൽ തെളിവുകളില്ലാതെ അവബോധത്താൽ ഈ ഫലങ്ങൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് ഉറപ്പികാം K ആണെങ്കിൽ വീണ്ടും ഇത് മറ്റൊരു വഴിയാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ g ഫംഗ്ഷനേക്കാൾ വേഗത്തിൽ അൺബൌണ്ടഡ്ഡാകുന്നു ഈ g ഫംഗ്ഷൻ ഇവിടെ ഡൈവേർജ് ചെയ്യുന്നുവെങ്കിൽ ഇന്റഗ്രൽ ഉം ഡൈവേർജ് ചെയ്യുന്നുവെന്ന് നമുക്ക് നിഗമനം ചെയ്യാം അതിനാൽ ഈ ലളിതമായ പരീക്ഷണത്തിലൂടെ നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ ചർച്ചചെയ്യാം അവിടെ ഇന്റഗ്രലിനെ അടിസ്ഥാനമാക്കി ഈ ടെസ്റ്റ് ഇന്റഗ്രൽ ചർച്ചചെയ്യുന്നു അതിനാൽ ഇത് വളരെ ഉപയോഗപ്രദമാകും ഞങ്ങൾ ചർച്ച ചെയ്ത ടൈപ്പ് 1 ഇടവേളയ്ക്കായി മറ്റൊരു ഡിറിക്ലെറ്റിന്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു വീണ്ടും ഇവിടെയും ഒരു സമാന്തര പരിശോധനയുണ്ട് ഇത് ഏറെക്കുറെ തുല്യമാണ് ഈ f ഇന്റഗ്രൽ യൂണിഫോംലി ബൌണ്ടഡ്ഡായിട്ടുണ്ടെങ്കിൽ ഏത് b a ഏത് എപ്സിലോൺ പോസിറ്റീവിനും നമുക്ക് ഇത് സ്ഥിരമായി ബന്ധിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഫംഗ്ഷൻ g മോണോടോൺ ആണെന്നും ബൌണ്ടഡ്ഡാണെന്നും 0 ആകുന്നു ഡിറിക്ലെറ്റിന്റെ പരിശോധന ഫലo എടുക്കുന്നതിലൂടെ a മുതൽ b വരെയുള്ള ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നുവെന്ന് നിഗമനം ചെയ്യാം അതിനാൽ രണ്ട് ഇന്റഗ്രലുകളുടെ ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഉള്ളപ്പോൾ ഈ ഡിറിക്ലെറ്റിന്റെ പരിശോധനയും ഉപയോഗപ്രദമാണ് ഇത് മോണോടോൺ ആണെന്ന് നമുക്കറിയാം ഇതും 0 ലേക്ക് അടുക്കുന്നു മറ്റൊന്ന് ഇവിടെ ഈ സമഗ്രത ഏകതാനമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഈ ഉൽപ്പന്നത്തെ സമന്വയിപ്പിക്കുമ്പോൾ ഇതിന്റെ കൺവെർജെൻസ് തെളിയിക്കാൻ ഈ ഡിറിക്ലെറ്റിന്റെ പരിശോധന ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഇന്റഗ്രൽ ന്റെ കൺവെർജെൻസ് പരിശോധിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ഇന്റഗ്രലിന്റെ കൺവെർജെൻസ് പരീക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്റഗ്രാന്റ് അപ്പർ എൻഡിൽ അൺബൌണ്ടഡ്ഡാകാൻ പാടില്ല അതിനാൽ ഞങ്ങൾ മുമ്പത്തെ ചർച്ച പ്രകാരം ഇതു സമാനമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിലും ഈ ഇന്റഗ്രൽ ഉള്ളപ്പോൾ അൺബൌണ്ടഡ്ഡായിത്തീരുന്നു പക്ഷേ അനുയോജ്യമായ ഒരു പകരക്കാരനിലൂടെ നമുക്ക് വീണ്ടും പരിവർത്തനം ചെയ്യാനാകുo അങ്ങനെ ഇന്റഗ്രലിന്റെ ഈ താഴ്ന്ന ബൌണ്ടറിയിലേക്ക് ഞങ്ങൾ അടുക്കുമ്പോൾ നമ്മുടെ സംയോജനം അതിരുകളില്ലാതെ പോകുന്നു അതിനാൽ നിങ്ങൾ ഇത് എന്നതിന് പകരമായി നൽകിയാൽ അത് എന്ന് സൂചിപ്പിക്കുന്നു

ഇന്റഗ്രൽ കൺവെർജെൻസ്നെ കുറിച്ച് നമുക്ക് ഇപ്പോൾ സംസാരിക്കാം t 0ലേക്ക് പോകുമ്പോൾ ഇന്റെഗ്രാന്റ് അൺബൌണ്ടഡ്ഡാകുന്നു അതിനാൽ താരതമ്യ ഫംഗ്ഷൻ ന് തുല്യമാണ് ഇവിടെ എടുക്കുന്നതിന്റെ കാരണം വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ഈ ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഇന്റെഗ്രാന്റ് ഇവിടെ f ആയിരുന്നു t 0ലേക്ക് അടുക്കുമ്പോൾ ഈ ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നു ഈ സ്ക്വയർ റൂട്ടിന് യാതൊരു പ്രശ്നവുമില്ലt 0 ലേക്ക് അടുക്കുമ്പോൾ ബൌണ്ടഡ്ഡാകുന്നു അതിനാൽ ഈ ഫംഗ്ഷൻ അൺബൌണ്ടഡ്ഡാണ് കാരണം ഇത് ആയതിനാൽ 0 എന്നതിനോട് അടുക്കുന്നു അതിനാൽ ഈ ഫംഗ്ഷൻ ഞങ്ങൾ തിരഞ്ഞെടുക്കും അതിനാൽ ഈ ഫംഗ്ഷൻ 1 t ആണ് നമുക്ക് കണക്കാക്കാം അതിനാൽ കൂടാതെ അതിനാൽ ഈ t റദ്ദാക്കപ്പെടും തുടർന്ന് ആകുമ്പോൾ ലഭിക്കും ഈ സാഹചര്യത്തിൽ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു കാരണം ഈ ഇന്റഗ്രൽ ഇവിടെ കിട്ടുന്നു ഇപ്പോൾ ഈ ഇന്റഗ്രൽ g യുമായി താരതമ്യപ്പെടുത്താൻ പോകുന്നു കാരണം ലിമിറ്റ് ഒരു പൂജ്യമല്ലാത്ത സംഖ്യയായിരിക്കുമ്പോൾ ഈ പരിശോധനകൾ സാധുകരിക്കുന്നു രണ്ട് ഇന്റഗ്രലുകളും അർത്ഥമാക്കുന്നത് ആണ് അതിനാൽ ഈ ഇന്റഗ്രലുകളുടെ കൺവെർജെൻസിനായി ഞങ്ങൾ പരീക്ഷിക്കുന്ന ഈ ഇന്റഗ്രൽ യഥാർത്ഥത്തിൽ ഈ ഫംഗ്ഷൻ x രൂപത്തിലാണ് നൽകിയിരിക്കുന്നത് അതിനാൽ മായി താരതമ്യപ്പെടുത്തുന്ന ഈ ഇന്റഗ്രൽ ആയതിനാൽ ഈ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു അതിനാൽ സ്വാഭാവികമായും തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഈ ഡൈവേർജ് ചെയ്യുo അതിനാൽ ഈ താരതമ്യ പരിശോധന ലളിതമായി ഈ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നുവെന്നു ഇന്റഗ്രലിന്റെ മൂല്യം വ്യക്തമായി കണക്കാക്കാതെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഇന്റഗ്രലിന്റെ കൺവെർജെൻസ് ഞങ്ങൾ പരിശോധിക്കും അവിടെ നമുക്ക് ഉണ്ട് അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഈ പ്രശ്നം ഉണ്ട് x ലേക്ക് അടുക്കുമ്പോൾ ഈ ഇന്റെഗ്രാന്റ് അൺബൌണ്ടഡ്ഡാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൺവെർജെൻസ് ചർച്ച ചെയ്യും അതിനാൽ ഇന്റഗ്രാൻഡിന്റെ സമ്പൂർണ്ണ മൂല്യം കണക്കിലെടുക്കുകയാണെങ്കിൽ അവസാന പ്രഭാഷണത്തിൽ ഞങ്ങൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അബ്സോല്യൂട്ട് കൺവെർജെൻസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ഇന്റഗ്രാൻഡിന്റെ സമ്പൂർണ്ണ മൂല്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഇന്റഗ്രൽ കൺവേർജ് ചെയ്യുകയാണെങ്കിലും ഇന്റഗ്രൽ അബ്സോല്യൂട്ട്ലി കൺവേർജ് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിളിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ പോലും ഞങ്ങൾ ഇന്റഗ്രാൻഡിന്റെ ഈ കേവല മൂല്യം എടുക്കുന്നു ഇത് 1 ൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു കാരണം ഈ 1 കൊണ്ട് ബൌണ്ടഡ്ഡായിരിക്കുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ അബ്സോല്യൂട്ട് മൂല്യം കൊണ്ട് ബൌണ്ടഡ്ഡായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ടെസ്റ്റ് ഇന്റഗ്രൽ എങ്ങനെ പ്രവർത്തിക്കുന്നുഎന്ന് അറിയാം പവർ ഇത് 1 ൽ കുറവാണ് അതിനാൽ ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ x മൈനസ് p ഇവിടെ 1 ന് താഴെയുള്ള ഏത് പവറിനും ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഇവിടെ നമുക്ക് പവർ 13 ആയതിനാൽ ഇത് കൺവെർജ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ അബ്സോല്യൂട്ട്ലി കൺവെർജ് ചെയ്യുന്നു അതിനാൽ അബ്സോല്യൂട്ട് കൺവെർജെൻസ് എന്നത് ഇന്റഗ്രലിന്റെ കൺവെർജെൻസിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്നാം തരത്തിലുള്ള ഇoപ്രൊപ്പർ ഇന്റഗ്രലുകൾ ഉണ്ടെങ്കിൽ മൂന്നാം തരത്തിലുള്ള ഇoപ്രൊപ്പർ ഇന്റഗ്രൽ എന്തായിരുന്നുവെന്ന് നിങ്ങൾ ഓർമിക്കുന്നുവെങ്കിൽ അത് തരം 1 തരം 2 എന്നിവയുടെ സംയോജനമായിരുന്നു അതിനാൽ ഉദാഹരണത്തിന് ഇന്റഗ്രൽ ഉണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ രണ്ട് കേസുകൾ ഉണ്ട് ഈ ഇൻഫിനിറ്റിയെ ഇന്റഗ്രൽ ലിമിറ്റിൽ കാണുന്നു x 1 ലേക്ക് അടുക്കുമ്പോൾ ഇന്റെഗ്രാന്റ് അൺബൌണ്ടഡ്ഡാകുന്നു അതിനാൽ ടൈപ്പ് 1 ന്റെയും ടൈപ്പ് 2 ന്റെയും ഇന്റഗ്രലുകളുണ്ട് അതിനാൽ അത്തരം ഇoപ്രൊപ്പർ ഇന്റഗ്രലുകൾക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും തരത്തിലുള്ള ഇoപ്രൊപ്പർ ഇന്റഗ്രലുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും തുടർന്ന് നമുക്ക് അടിസ്ഥാനപരമായി അത്തരം ഇന്റഗ്രലുകളെ വിലയിരുത്താൻ കഴിയും അല്ലെങ്കിൽ അത്തരം ഇന്റഗ്രലുകളുടെ കൺവെർജെൻസിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഇന്റഗ്രൽ ഉണ്ട് ഇത് നമുക്ക് രണ്ട് ഇന്റഗ്രലുകളായി വിഭജിക്കാം അതിനാൽ ആദ്യത്തേതിൽ ഞങ്ങൾ എടുത്തു രണ്ടാമത്തെ കേസിൽ ഞങ്ങൾ 2 മുതൽ വരെ എടുത്തു ഇപ്പോൾ എന്ത് സംഭവിക്കും ആദ്യ ഇന്റഗ്രലിൽ ഞങ്ങൾക്ക് ഇല്ല അതിനാൽ ആ സാഹചര്യത്തിൽ x 1 ലേക്ക് അടുക്കുമ്പോൾ ഈ ഇന്റഗ്രൽ അൺബൌണ്ടഡ്ഡാകുന്നു അതിനാൽ ഇതു ഞങ്ങൾ ചർച്ച ചെയ്ത ടൈപ്പ് 2 തരം ഇoപ്രൊപ്പർ ഇന്റഗ്രലാണ് ഇവിടെ ഇത് ഇൻഫിനിറ്റിയാണ് കൂടാതെ ഫംഗ്ഷൻ ബൌണ്ടഡ്ഡാണ് അതിനാൽ 2 മുതൽ വരെയുള്ള മുഴുവൻ റേഞ്ചിലും ടൈപ്പ് 1 ന്റെ ഇoപ്രൊപ്പർ ഇന്റഗ്രലാണ് അതിനാൽ ഞങ്ങൾ ഈ സംഖ്യയെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചു ആദ്യത്തേത് ടൈപ്പ് 2 ന്റെ ഇoപ്രൊപ്പർ ഇന്റഗ്രൽ രണ്ടാമത്തേത് ടൈപ്പ് 1 ന്റെ ഇoപ്രൊപ്പർ ഇന്റഗ്രൽ തുടർന്ന് നമുക്ക് ഓരോന്നിന്റെയും കൺവെർജെൻസ് പ്രത്യേകമായി ചർച്ചചെയ്യാം അതിനാൽ കൺവെർജെൻസിനായി താരതമ്യ പരിശോധനയും ഇവിടെ ആദ്യത്തെ ഇന്റഗ്രലിനും ഉപയോഗിക്കും അതിനാൽ ഞങ്ങൾ ഈ ഫംഗ്ഷൻ എടുക്കും അതിന്റെ കാരണം വ്യക്തമാണ് ഈ ഇന്റഗ്രൽ പരിശോധിച്ചാൽ ഇവിടെ ഈ കേസിലെ ആദ്യത്തെ ഇന്റഗ്രൽ നമുക്ക് ഈ ഇന്റെഗ്രാന്റ് ഉണ്ട് ഇത് x 1 ലേക്ക് അടുക്കുമ്പോൾ അൺബൌണ്ടഡ്ഡാകുന്നു അതിനാൽ x 1 ലേക്ക് അടുക്കുമ്പോൾ ഈ ഘടകം അൺബൌണ്ടഡ്ഡട്നെസ്സ് ഫംഗ്ഷൻ സൃഷ്ടിക്കുന്നു അതിനാൽ ഫംഗ്ഷനുമായി താരതമ്യപ്പെടുത്തി ഞങ്ങൾ തിരഞ്ഞെടുത്തു ഇവിടെ 2 ന്റെ അനുപാതം എടുക്കുകയാണെങ്കിൽ f ഇന്റെഗ്രാന്റ് ആയിരുന്നു അതിനാൽ ഇവിടെ ആദ്യത്തെ ഇന്റഗ്രലിലെ ആയിരുന്നു രണ്ടാമത്തെ ഇന്റഗ്രലിൽ ആണ് നമ്മൾ ഈ ലിമിറ്റ് ⁡ എടുത്താൽ തുടർന്ന് ലിമിറ്റ് 1 ലേക്ക് അടുക്കുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കും അതിനാൽ x 1 നെ സമീപിക്കുന്നു അതിനാൽ ഈ നിലനിൽക്കും മറ്റൊന്ന് റദ്ദാക്കും 1 എന്നതിലേക്കു സമീപിക്കുമ്പോൾ അതിനാൽ ഈ അനുപാതത്തിന്റെ ലിമിറ്റായി നമുക്ക് ഇവിടെ പൂജ്യമല്ലാത്ത ഒരു സംഖ്യ ലഭിക്കുന്നു അതായത് നൽകിയ ഇന്റഗ്രലും ഈ g യുടെ ഇന്റഗ്രലും അതിനാൽ ഇന്റഗ്രൽ അവ രണ്ടും ഒരേപോലെ പ്രവർത്തിക്കും ഇന്റഗ്രൽ ഈ ഇന്റഗ്രൽ കൺവേർജ് ചെയ്യുന്നുവെന്ന് ടെസ്റ്റ് ഇന്റഗ്രലിൽ നിന്ന് നമുക്കറിയാം അതിനാൽ താരതമ്യ പരിശോധനകളിൽ നിന്ന് ടൈപ്പ് 2 ഇന്റഗ്രൽ കൺവേർജ് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ കണ്ടു ഇപ്പോൾ രണ്ടാമത്തെ ഇന്റഗ്രൽ നോക്കാം അതിനാൽ രണ്ടാമത്തെ ഇന്റഗ്രലിനായി ഞങ്ങൾ ഫംഗ്ഷൻ തിരഞ്ഞെടുക്കും കാരണം വീണ്ടും വ്യക്തമാണ് കാരണം ഇവിടെ പ്രശ്നം ആണ് അതിനാൽ ഈ ഫംഗ്ഷന്റെ സ്വഭാവം x ലേക്ക് അടുക്കുന്നതായി ഞങ്ങൾ പരിശോധിക്കും അവിടെ നിന്ന് താരതമ്യത്തിനായി g ഫംഗ്ഷൻ എടുക്കും അതിനാൽ ഈ f ഇവിടെ എടുത്താൽ അത് ഇന്റഗ്രലായിരുന്നു അതിനാൽ x ലേക്ക് അടുക്കുമ്പോൾ പ്രവർത്തിക്കുന്നു അതിനാൽ ആദ്യം ഞാൻ ഇത് മാറ്റിയെഴുതുന്നു ഇവിടെ ഞാൻ എടുക്കും അതിനാൽ ഞാൻ ഈ x 1 ലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ പെരുമാറ്റത്തെ ലേക്ക് അടുക്കുന്നതായി നോക്കിയാൽ ഇവിടെ ഈ പദം പ്രശ്നമുണ്ടാക്കുന്നില്ല കാരണം x ∞ലേക്ക് അടുക്കുന്നു ഇത് 1 ആണ് അതിനാൽ നമുക്ക് ഈ ഉണ്ട് അതിനാൽ x ലേക്ക് അടുക്കുമ്പോൾ ഈ ഫംഗ്ഷന്റെ സ്വഭാവം അതിനാൽ ഇവിടെ g എന്ന ഫംഗ്ഷൻ ആയി ലഭിച്ചു അതിനാൽ ഈ g നെ ആയി എടുക്കുന്നു താരതമ്യ പരിശോധനയ്ക്കായി ഞങ്ങൾക്ക് ഈ ലിമിറ്റ് ലഭിക്കുകയാണെങ്കിൽ x എന്ന ലിമിറ്റ്ലേക്ക് പോകുന്നു ഈ ഉം അതിനാൽ ആയിരുന്നു തുടർന്ന് ഈ g വീണ്ടും അതിനാൽ നമുക്ക് x സ്ക്വയർ ഉണ്ട് അതിനാൽ ലിമിറ്റ് x ലേക്ക് പോകുന്നു വീണ്ടും ഞങ്ങൾ ഈ പൊതുവായ x എടുക്കും അതിനാൽ റദ്ദാക്കപ്പെടും നമുക്ക് ഉണ്ടാകും X അനന്തതയിലേക്ക് പോകുമ്പോൾ ഇത് 1 ലേക്ക് അടുക്കും അതിനാൽ ഞങ്ങൾക്ക് ഈ ലിമിറ്റ് 1 ആയി ഉണ്ട് ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരേ കാരണത്താൽ രണ്ട് ഇന്റഗ്രലുകളും ഒരേപോലെ പ്രവർത്തിക്കും അതിനാൽ ഒന്നു ഇവിടെ നൽകിയിരിക്കുന്ന ഇന്റഗ്രൽ മറ്റൊന്ന് ടെസ്റ്റ് ഇന്റഗ്രൽ എന്താണ് ടെസ്റ്റ് ഇന്റഗ്രൽ ൽ പരീക്ഷിക്കുക ടെസ്റ്റ് ഇന്റഗ്രൽ കൺവേർജ് ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഈ ഇന്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു അതിനാൽ നൽകിയ ഇന്റഗ്രൽ രണ്ടാമത്തെ ഇന്റഗ്രൽ അത് ടൈപ്പ് 1 ഇന്റഗ്രൽ ആണ് ഇതും കൺവേർജ് ചെയ്യുന്നു അതിനാൽ വലതുവശത്തുള്ള രണ്ട് ഇന്റഗ്രലുകളും ഈ താരതമ്യ പരിശോധനയിലൂടെ കൺവേർജ് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിരീക്ഷിച്ചു വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് വിലയിരുത്താം ഈ ആശയം കൃത്യമായി രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച് ഒരേ ആശയം ഉപയോഗിച്ച് ആദ്യത്തെ ഇന്റഗ്രൽ ഒരു അവിഭാജ്യ ഘടകമായിരിക്കും ടൈപ്പ് 2 ന്റെ രണ്ടാമത്തേത് ഇന്റഗ്രൽ ടൈപ്പ് 1 ആയിരിക്കും എന്നിട്ട് നമുക്ക് ഓരോന്നിനെയും വിലയിരുത്താൻ കഴിയും അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമഗ്രമായ അതേ ആശയം പരിഗണിക്കാം ഈ എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇത് ഒഴിവാക്കി കൂടാതെ എന്ന അപ്പർ ലിമിറ്റ് ഞങ്ങൾ ഒരു സംഖ്യ R ഉപയോഗിച്ച് ഒരു വലിയ സംഖ്യ ഉപയോഗിച്ച് മാറ്റിയിരിക്കുന്നു എന്നിട്ട് എടുക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ആദ്യം ഈ ഇന്റഗ്രൽ വിലയിരുത്തും കാരണം ഇത് പ്രോപ്പർ ഇന്റഗ്രലായതിനാൽ താഴത്തെ അറ്റത്തും മുകളിലെ അറ്റത്തും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അതിനാൽ ഇവിടെ ഞങ്ങൾ ഈ മാറ്റിസ്ഥാപിക്കും തുടർന്ന് നമുക്ക് ഈ ഇന്റഗ്രൽ എളുപ്പത്തിൽ വിലയിരുത്താൻ കഴിയും അതിനാൽ ഈ പകരക്കാരൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ എന്നതിന് പകരമായി പകരം വച്ചിട്ടുണ്ട് അതിനർത്ഥം നമുക്ക് ഈ ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ ഡെഫിനിറ്റ് ഇന്റഗ്രലിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ x ഇപ്പോൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു എന്നത് t ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു കൂടാതെ ഈ അതിനാൽ t റദ്ദാക്കപ്പെടും ഈ ഇന്റഗ്രൽ ആയി മാറുന്നു അത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ഇത് ആണ് അതിനാൽ ഇത് ഇന്റഗ്രലിന്റെ ഒരു മൂല്യമാണ് ഇപ്പോൾ നമുക്ക് ആ ലിമിറ്റ് തിരികെ നൽകാം അതിനാൽ ആദ്യം ഈ x ഇവിടെ ആയിരുന്നു അതിനാൽ ഇപ്പോൾ മുതൽ R വരെയുള്ള ലിമിറ്റ് ഇവിടെ വച്ചാൽ ഞങ്ങൾക്ക് 2 ഉം ഈ ഉം ലഭിച്ചു തുടർന്ന് tan ഇൻവെർസ് ഈ x ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ 1 റദ്ദാക്കുകയും ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നിരിക്കുന്ന ഇന്റഗ്രലിന്റെ മൂല്യം ഇതാണ് ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ ഇതുപയോഗിച്ച് തന്നിരിക്കുന്ന ഇന്റഗ്രലിലേക്ക് ഇപ്പോൾ നമുക്ക് സമീപിക്കാം ഈ സാഹചര്യത്തിൽ ലിമിറ്റ് ϵ മുതൽ 0 വരെയും R മുതൽ വരെയും എടുക്കുമ്പോൾ ലഭിക്കും അതിനാൽ ഈ ഇന്റഗ്രലിന്റെ മൂല്യം R ∞ ϵ 0 എന്നിവയിലേക്ക് R അടുക്കുമ്പോൾ ലിമിറ്റ് മറികടക്കും അതിനാൽ R ലേക്ക് അടുക്കുമ്പോൾ അത് ആയി മാറും ഇത് മൈനസ് ചെയ്യുക ഈ 0ലേക്ക് അടുക്കുമ്പോൾ അത് 0 ആയി മാറും അതിനാൽ ഈ നമുക്ക് ഉണ്ട് അതിനാൽ ഈ മൂല്യം വെറും ആയിരിക്കും അതിനാൽ ഇവിടെ ടാൻ ഇൻവെർസ് ടാൻ ഇൻവെർസ് പൈ ടാൻ ഇൻവെർസ് ഇൻഫിനിറ്റിയാണ് അതിനാൽ അത് ആയിരിക്കും ഇത് 0 ആയിരിക്കും തുടർന്ന് നമുക്ക് ഇവിടെ 2 തവണയുണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഈ പൈ ഇവിടെ ലഭിച്ചു അതിനാൽ ഈ ഇന്റഗ്രലിന്റെ മൂല്യം ആണ് ഇത് ഒരു കൺവെർജെന്റ ഇന്റഗ്രൽ ആണെന്ന മൂല്യം വിലയിരുത്താതെ തന്നെ ഞങ്ങൾ മുമ്പും കണ്ടു ഇന്റഗ്രാന്റ് നിർവചിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇന്റഗ്രൽ റേഞ്ചിൽ ഇന്റീരിയർ പോയിന്റിൽ ബൌണ്ടഡ്ഡല്ലാത്ത ഇoപ്രോപ്പർ ഇന്റഗ്രലുകൾ വിലയിരുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽഅവസാന പോയിന്റല്ല ഇന്റഗ്രൽ ലഭിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇന്റഗ്രാൻഡ് അൺബൌണ്ടഡ്ഡാണ് അല്ലെങ്കിൽ നിർവചിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വിലയിരുത്തലിനായി ഞങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഇന്റഗ്രൽ a മുതൽ ഉണ്ടെന്ന് കരുതുക കൂടാതെ ഒരു പോയിന്റിൽ f പോയിന്റ് c യിൽ അൺബൌണ്ടഡ്ഡാണ് ഇവിടെ ഇത് acb ഇത് ഈ ഇന്റഗ്രലിന്റെ റേഞ്ചിലാണ് ആ പോയിന്റിൽ ഞങ്ങൾ ഇത് തകർക്കണം അതിനാൽ ഇപ്പോൾ ടൈപ്പ് 2 ഇന്റഗ്രലിന്റെ ഈ രണ്ട് ഇന്റഗ്രലുകൾ ഉണ്ട് അതിനാൽ x → c ആയിരിക്കുമ്പോൾ ഇത് അൺബൌണ്ടഡ്ഡാകുന്നു അതിനാൽ ഇപ്പോൾ രണ്ട് വഴികളുണ്ട് ഒരാൾക്ക് ഈ ലിമിറ്റ് 1 ലഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം ഇത് ഞങ്ങൾ എന്നിവ അവതരിപ്പിക്കുന്നത് പോലെയാണ് ഇവിടെ ഉണ്ട് അതിനാൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ എന്നിവ ഞങ്ങൾ ഒഴിവാക്കി രണ്ട് സ്ഥലങ്ങളിലും ഞങ്ങൾ ഒരേ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ അടിസ്ഥാനപരമായി മൂല്യനിർണ്ണയത്തിന് ശരിയായ ഒന്നാണ് ആദ്യത്തെ ഇന്റഗ്രലിനായി ഞങ്ങൾ ഇവിടെ എപ്സിലോൺ ഒന്ന് എടുക്കുന്നു കാരണം ഇവ രണ്ടും പ്രത്യേക ഇoപ്രോപ്പർ ഇന്റഗ്രലുകളായതിനാൽ ഞങ്ങൾ വ്യത്യസ്തമായി ഇടപെടണം അതിനാൽ ഇവിടെ നമുക്ക്ഉണ്ട് അതിനാൽ ഈ രണ്ട് ഇന്റഗ്രലുകളും വ്യത്യസ്തമായി പരിഗണിച്ചു ഇവിടെ ഞങ്ങൾ ഒരു എപ്സിലോൺ അവതരിപ്പിച്ചു തുടർന്ന് ഈ പോയിന്റ് ഒഴിവാക്കി അതിനാൽ ഞങ്ങൾക്ക് കൺവെർജെൻസ് ഇന്റഗ്രലുകൾ ഉള്ളപ്പോൾ ഏത് ഇന്റഗ്രൽ എടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല ഇത് സമാനമായിരിക്കും അതിനാൽ മറ്റ് സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമുണ്ട് കാരണം ഇത് വ്യത്യസ്തമായ ഇന്റഗ്രൽ ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ മൂല്യം വ്യത്യാസപ്പെടും അതിനാൽ ഇവിടെ ലളിതമായ പ്രശ്നം ഞങ്ങൾ പരിഗണിക്കുന്നു ഇത് ന് തുല്യമാണ് അതിനാൽ ഈ രണ്ട് ഇന്റഗ്രലുകൾ ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ആദ്യ സമീപനം കണക്കാക്കുമ്പോൾ എന്ത് സംഭവിക്കും അത് ആയിരിക്കും അതിനാൽ ഇപ്പോൾ ഇവ റദ്ദാക്കപ്പെടും ഈ ലിമിറ്റ് അടിസ്ഥാനപരമായി 0 ആയിരിക്കും എന്നാൽ എന്നതിൽ നിന്നുള്ള ആദ്യ ഇന്റഗ്രലിനെ പ്രത്യേകം വിലയിരുത്തിയാൽ എന്ത് സംഭവിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്റഗ്രലുകളൊന്നുമില്ല കാരണം ഇത് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി ഇവിടെ ലഭിക്കും 0 ലേക്ക് പോകുമ്പോൾ ഇത് അൺബൌണ്ടഡ്ഡായിരിക്കും ഇത് ലേക്ക് പോകും അതുപോലെ ഇതും കൺവെർജെൻന്റ് ഇന്റഗ്രലല്ല ഇതും ഡൈവേർജ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ഇവിടെ വിലയിരുത്താൻ കഴിയാത്തത്കാരണം ഈ സ്ഥലത്ത് ദൃശ്യമാകുന്ന രണ്ട് ഇന്റഗ്രലുകളും അവ ഡൈവേർജ് ചെയ്യുകയും അവ നിലനിൽക്കുകയും ചെയ്യുന്നില്ല രണ്ട് സ്ഥലങ്ങളിലും എപ്സിലോൺ എടുത്ത് ഞങ്ങൾ ഇവിടെ ഈ തെറ്റ് ചെയ്താൽ മൂല്യം 0 ആയിരിക്കും അതിനാൽ നിഗമനത്തിലെത്തുന്നു അതിനാൽ ഞങ്ങൾക്ക് ഈ രണ്ട് പ്രധാന താരതമ്യ പരിശോധനയുണ്ട് അതിനാൽ ഇവിടെ ഒന്നായിരുന്നു ഇവിടെ ഞങ്ങൾ ഈ എടുക്കുന്നു എന്നിട്ട് ഈ g വലിയതിനെ സ്വാഭാവികമായും കൺവെർജ് ചെയ്താൽ ഈ ചെറുo കൺവെർജ് ചെയ്യുo മറ്റൊരു വഴി ഈ ചെറുത് ഡൈവേർജ് ചെയ്യുന്നുവെങ്കിൽ വലുതും ഡൈവേർജ് ചെയ്യുമെന്ന് നമുക്ക് നിഗമനം ചെയ്യാം അതിനാൽ ഞങ്ങൾക്ക് ഈ താരതമ്യ പരിശോധനയുണ്ട്

മറ്റൊന്ന് ഈ താരതമ്യ ടെസ്റ്റ് 2 ഇത് വളരെ പ്രധാനപ്പെട്ടതും വളരെ ഉപയോഗപ്രദവുമായിരുന്നു അവിടെ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ എടുത്ത് ഈ ലിമിറ്റ് കണക്കുകൂട്ടും അവ ഈ സംഖ്യയെ അടിസ്ഥാനമാക്കി നമുക്ക് കൺവെർജെൻസ് അവസാനിപ്പിക്കാൻ കഴിയും k ≠ 0 ആണെങ്കിൽ രണ്ടും ഇന്റഗ്രലുകൾ ഉം എന്നിവ സമാനമായി പ്രവർത്തിക്കുന്നു K0 ആണെങ്കിൽ kആണെങ്കിൽ എന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് താരതമ്യ ടെസ്റ്റ് 2 ആയിരുന്നു ലെക്ചർ തയ്യാറാക്കാൻ ഞങ്ങൾ ഉപയോഗിച്ച റഫറൻസുകളാണിത് വളരെ നന്ദി